അതിനാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ രീതിയായ ഫിനിറ്റ് എലമെന്റ് രീതിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഞങ്ങൾ തുടരും ഒപ്പം നിർമ്മാണം ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാന ആശയം ഈ തൂക്കമുള്ള ശേഷിക്കുന്ന ആശയമാണ് അതിനാൽ അവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമെന്നതാണ് വ്യത്യാസം ഞങ്ങൾ അത് 0 ആയിരിക്കണമെന്നും ടെസ്റ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വെയ്റ്റിംഗ് ഫംഗ്ഷൻ ഒരു ശരാശരി അർത്ഥത്തിൽ അത് ഡൊമെയ്നിൽ 0 ആക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ എല്ലാ ചെറിയ ചെറിയ ഉപ ഡൊമെയ്നുകളിലും ഞങ്ങൾ ഇത് ആവർത്തിക്കുന്നു അതിനാൽ അടിസ്ഥാന ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഒരു ഹ്രസ്വ ചർച്ച നടത്തും അതിനാൽ ഇപ്പോൾ ഒരു ഡൈമൻഷണൽ ബേസ് ഫംഗ്ഷനുകളിലേക്ക് വരുന്നു അതിനാൽ ഇത് ശരിക്കും എളുപ്പമുള്ള ഭാഗമാണ് 1D പ്രശ്നം തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഏതാണ് വിദ്യാർത്ഥി ലൈൻ സെഗ്മെന്റ് ലൈൻ സെഗ്മെന്റുകൾ വലത് അതിനാൽ ഞങ്ങൾക്ക് ഇതുപോലൊരു ലൈൻ സെഗ്മെന്റ് ഭാഷ ഉണ്ടായിരിക്കുകയും ഞങ്ങൾ അതിനെ ഇതുപോലെ ഡിസ്ക്രിറ്റൈസ് ചെയ്യുകയും ചെയ്യും ചില x എന്നത് 0 മുതൽ x വരെ തുല്യമാണ് അതിനാൽ ഉദാഹരണത്തിന് നമ്മൾ പറയുന്ന അജ്ഞാതങ്ങൾ ഈ നോഡുകളിലെ ഫംഗ്ഷന്റെ മൂല്യമാകാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെഗ്മെന്റ് എടുക്കാം അതിനാൽ ഈ സെഗ്മെന്റ് ഇവിടെ എടുക്കാം അതിനാൽ ഇത് FEM ൽ ഞങ്ങൾ ഇതിനെ ഒരു സെഗ്മെന്റ് എന്ന് വിളിക്കില്ല ഞങ്ങൾ ഇതിനെ ഒരു എലമെന്റ് ഓകെ എന്ന് വിളിക്കുന്നു എന്നാൽ 1D യിൽ എലമെന്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ലൈൻ സെഗ്മെന്റിനെക്കുറിച്ച് ചിന്തിക്കണം അതിനാൽ ഞങ്ങൾ ഈ ഘടകത്തെ വിളിക്കും അതിനാൽ പരിമിതമായ മൂലക രീതി എന്ന വാക്ക് ധാരാളം പരിമിത ഘടകങ്ങളിൽ ഈ മുഴുവൻ രീതിയും ഉണ്ടാക്കുന്നു അതിനാൽ നമുക്ക് ഈ ആളെ ഇവിടെത്തന്നെ സൂം ചെയ്യാം ഇപ്പോൾ ഓരോ മൂലകത്തിനും ഞാൻ ചില അടിസ്ഥാന ഫംഗ്ഷനുകൾ നിർവചിക്കും അതിനാൽ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഇത് അൽപ്പം വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഞങ്ങൾ പരിമിതമായ വ്യത്യാസ രീതിയെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ വിവിധ നോഡുകളിലെ ഫംഗ്ഷന്റെ മൂല്യങ്ങൾ അജ്ഞാതമാണ് അവയിൽ നിന്ന് ഞങ്ങൾ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ അജ്ഞാതങ്ങൾ ഇപ്പോഴും സമാനമാണ് നോഡുകളുടെ മൂല്യം എന്നാൽ ഈ നോഡ് മൂല്യങ്ങൾക്കിടയിൽ ഇന്റർപോളേറ്റ് ചെയ്യുന്ന ഒരു തരം സുഗമമായ ഫംഗ്ഷൻ ഞങ്ങൾ സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ മുമ്പ് കണ്ട എന്തെങ്കിലും നമുക്ക് നിർവചിക്കാം ശരി അതിനാൽ ശരി ഓരോ മൂലകത്തിനും രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ട് അവ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞാൻ എന്ന് എഴുതാൻ പോകുന്നു അതിനാൽ ഇത് ശരിയാണ് അതിനാൽ ഇത് ഞാൻ സൂം ഇൻ ചെയ്ത ശേഷം ഇവിടെ കാണിക്കുന്ന എത് സെഗ്മെന്റോ എഥ് എലമെന്റോ ആണ് 1D യിലെ ഓരോ ഘടകത്തിനും എത്ര നോഡുകൾ ഉണ്ടായിരിക്കും 2 നോഡുകൾ ഇടത് നോഡും വലത് നോഡും ശരിയാണ് അതിനാൽ സബ്സ്ക്രിപ്റ്റ് 1 പോലെ നമ്മൾ വിളിക്കുന്ന ഇടത് നോഡിനെയും വലത് നോഡിനെ ഞാൻ സബ്സ്ക്രിപ്റ്റ് 2 എന്നാണ് വിളിക്കുന്നത് അതിനാൽ ഞാൻ ഏതെങ്കിലും ഘടകം എടുത്താൽ ഒരു തരം ലോക്കൽ നമ്പറിംഗ് ഉണ്ട് എല്ലാ ഘടകത്തിനും ലോക്കൽ 1 ഉം 2 ഉം ഇടമുണ്ട് അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ആദ്യത്തെ അടിസ്ഥാന ഫംഗ്ഷനാണ് അതിനാൽ ഇത് e എന്ന മൂലകത്തിന് മുകളിൽ മാത്രമേ നിർവചിച്ചിട്ടുള്ളൂ അത് പുറത്ത് പൂജ്യമാണ് അതിനാൽ ഘടകത്തിന് പുറത്ത് നിങ്ങൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കരുത് ഈ ഫംഗ്ഷൻ ഘടകത്തിന് മുകളിൽ മാത്രമേ നിർവചിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് എന്ത് പറ്റി ഇത് ഒരുതരം ആന്റി സിമെട്രിക് നിർവചനമാണ് വിദ്യാർത്ഥി രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ട് ഒരു മൂലകത്തിന് രണ്ട് അടിസ്ഥാന ഫംഗ്ഷനുകൾ ഉണ്ട് ഇവയാണ് ആ രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്ക് 2 എന്തുകൊണ്ട് ആവശ്യമാണെന്ന് നോക്കാം അതിനാൽ എന്താണ് അങ്ങനെ ഇതാണ് ആദ്യത്തേത് വിദ്യാർത്ഥി ഏരിയ സെഗ്മെന്റും ആ പോയിന്റുകളും ഉൾക്കൊള്ളുന്ന ഒരു ഘടകമാണിത് ഒരു മൂലകത്തിൽ സെഗ്മെന്റും സെഗ്മെന്റും അടങ്ങിയിരിക്കുന്നു ഞാൻ അർത്ഥമാക്കുന്നത് മൂലകം ഒരു സെഗ്മെന്റാണ് ആ സെഗ്മെന്റിന് അതിൽ 2 നോഡുകൾ ഉണ്ട് കൂടാതെ ഘടകത്തിന് അതിൽ രണ്ട് അടിസ്ഥാന ഫംഗ്ഷനുകളും നിർവചിച്ചിരിക്കുന്നു FEM സാഹിത്യത്തിൽ ഈ അടിസ്ഥാന പ്രവർത്തനങ്ങളെ ഷേപ്പ് ഫംഗ്ഷനുകൾ എന്നും വിളിക്കുന്നു അതിനാൽ ഈ വാക്ക് ബദൽ ഉപയോഗിക്കുന്നതായി നിങ്ങൾ കേൾക്കും അതിനാൽ നിങ്ങൾ ആകൃതി ഫംഗ്ഷൻ വായിക്കുകയാണെങ്കിൽ ആശയക്കുഴപ്പത്തിലാകരുത് അതിനർത്ഥം അടിസ്ഥാന പ്രവർത്തനം എന്നാണ് അതിനാൽ ആകൃതി അല്ലെങ്കിൽ അടിസ്ഥാന പ്രവർത്തനങ്ങൾ അർത്ഥമാക്കുന്നത് ഒരേ കാര്യമാണ് ഇപ്പോൾ നമ്മൾ അവയിൽ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഇത് വളരെ മനോഹരമായ ഒരു ജ്യാമിതീയ സ്വത്ത് മാത്രമാണ് അതിനാൽ ഞാൻ ആദ്യത്തെ അടിസ്ഥാന ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താൽ അത് എങ്ങനെയിരിക്കും അതിനാൽ ഇത് എന്റെ ഇവിടെയാണ് ഇത് എന്റെ ഇവിടെയാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ ആദ്യ ആകൃതി ഫംഗ്ഷൻ അതിന്റെ മൂല്യം x ൽ എത്രയാണ് ഈ നോഡിൽ അതിന്റെ മൂല്യം എന്താണ് വിദ്യാർത്ഥി 1 1 വലത് അതിനാൽ അതിന്റെ മൂല്യം നമുക്ക് ഇവിടെയും ഇവിടെയും 1 എന്ന് പറയാം 0 വലത് അതിനാൽ ഇത് a ആണ് ഇത് രേഖീയ വലത് ആയതിനാൽ അതിനിടയിലുള്ള ഒരു നേർരേഖയാണ് അപ്പോൾ ആദ്യത്തെ ഷേപ്പ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് രണ്ടാമത്തെ ഷേപ്പ് ഫംഗ്ഷന്റെ കാര്യമോ മറ്റൊരു വഴി അതിനാൽ അത് 0 ആണ് തുടർന്ന് വലതുവശത്ത് 1 ന്റെ മൂല്യത്തിലേക്ക് പോകുന്നു ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ എടുത്താൽ ഇത് എങ്ങനെയിരിക്കും വിദ്യാർത്ഥി ട്രപീസിയം ഇത് ഒരു ട്രപീസിയം പോലെ കാണപ്പെടും അതിനാൽ ഒന്നാമതായി ഈ ഫംഗ്ഷൻ ഇവിടെ ബഹുപദത്തിന്റെ അളവ് എത്രയാണ് വിദ്യാർത്ഥി ആദ്യം ആദ്യം ഒന്നാം കൃതി വലത് രണ്ടിനും ഒരു രേഖീയ x പദമുണ്ട് അതിനാൽ മൊത്തത്തിൽ ഇത് രേഖീയമാണ് ഈ ഫംഗ്ഷന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് x ൽ ഈ ഫംഗ്ഷന്റെ മൂല്യം അതിന്റെ മൂല്യം എത്രയാണ് വിദ്യാർത്ഥി എ ഒരു അവകാശം അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ മൂല്യം വിദ്യാർത്ഥി ബി b ശരിയാണ് അതിനാൽ ഇത് b ആണെങ്കിൽ അത് രേഖീയ ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഈ പ്രവർത്തനം അടിസ്ഥാനപരമായി ശരിയാണ് അതിനാൽ ഈ രണ്ട് ആകൃതി ഫംഗ്ഷനുകൾ നിങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളായി ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ അനുവദിക്കുന്നതെന്തോ വലത് 2 നോഡുകൾക്കിടയിൽ സുഗമമായി വ്യത്യസ്തമായ ഒരു ലീനിയർ ഫംഗ്ഷനായി നിങ്ങൾ പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ അജ്ഞാത ഫംഗ്ഷൻ നിങ്ങൾ അനുവദിക്കുന്നു അതിനാൽ ഇതിന്റെ പ്രയോജനം ഉദാഹരണത്തിന് ഈ ബി ഇവിടെ നിന്ന് നീക്കംചെയ്ത് ഈ മൂലകത്തോട് ചേർന്നുള്ള അകത്ത് ഇടാൻ ഞാൻ എന്നെ അനുവദിച്ചാൽ അതിനാൽ ഇത് മൂലകം e ഇത് മൂലകം e പ്ലസ് 1 ആണെങ്കിൽ അതിനോട് ചേർന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനടുത്തുള്ള അടുത്ത ഘടകം ഈ മൂലകത്തിനും രണ്ട് ആകൃതി ഫംഗ്ഷനുകൾ ഉണ്ടായിരിക്കും അത് ചെയ്യും വ്യക്തമായും കാരണം 1 നോഡ് ഇതിന് സാധാരണമാണ് അതിനാൽ ഫംഗ്ഷന് ഇതുപോലെ പോകാൻ കഴിയുമെങ്കിൽ ഈ പോയിന്റിലെ മൂല്യത്തെ ആശ്രയിച്ച് നമുക്ക് പറയാം അത് മൂല്യം എന്താണോ അത് ശരിയാക്കുക അതിനാൽ ഇത് നിർമ്മിക്കുന്നതിലൂടെ ഇത് കഷണങ്ങളായി രേഖീയമാണ് ഇതിൽ നിന്ന് പുറത്തുവരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നല്ല പ്രോപ്പർട്ടി എന്താണ് പച്ച കർവ് നൽകുന്ന പ്രവർത്തനം വിദ്യാർത്ഥി തുടർച്ചയായി കുറഞ്ഞത് തുടർച്ചയായെങ്കിലും മുമ്പ് ഞങ്ങൾ പൾസ് ഫംഗ്ഷനുകൾ എപ്പോൾ ചെയ്തുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ അതിനെ ഇതുപോലെ വീണ്ടും സെഗ്മെന്റുകളായി വിഭജിച്ചു ഇവിടെ പൾസ് 1 ന് കുറച്ച് മൂല്യമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഈ പൾസ് 2 പോലെ എഴുതിയോ വിദ്യാർത്ഥി മറ്റ് ചില മൂല്യങ്ങൾ മറ്റ് ചില മൂല്യങ്ങൾ അതിനാൽ പ്രവർത്തനം തുടർച്ചയായതാണെങ്കിലും അത് ഒരു പൾസ് അടിസ്ഥാനത്തിലായിരിക്കാൻ നിർബന്ധിതമായി എടുക്കുന്നു അത് നിർത്തലാക്കാൻ ഞാൻ നിർബന്ധിക്കുന്നു അതിനാൽ ഞാൻ ഫംഗ്ഷൻ തന്നെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഒരു സംഖ്യാ പിശക് അവതരിപ്പിക്കുകയാണ് പകരം ഞാൻ ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി മെച്ചമാണ് ചെയ്യുന്നത് വിദ്യാർത്ഥി സർ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ ശ്രമിക്കാത്ത ഒരേയൊരു കാര്യം ഇതാണ് കൃത്യമായി പറഞ്ഞാൽ ത്രികോണാകൃതിയിലുള്ള പൾസിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചത് ഇതാണ് ശരി അതിനാൽ FEM പൾസ് അടിസ്ഥാനം പരിഗണിക്കുന്നില്ല എന്നാൽ മുമ്പത്തെ രീതികളിൽ നിങ്ങൾക്ക് പൾസ് ബേസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പിശകുകൾ ലഭിച്ചു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് പുതിയ കാര്യമല്ല വാസ്തവത്തിൽ ഈ ബഹുപദങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം അവയെ എന്താണ് വിളിക്കുന്നതെന്ന് വിദ്യാർത്ഥി ലഗ്രാഞ്ച് ലഗ്രാഞ്ച് പോളിനോമിയലുകൾ അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര അളവുകളിൽ Lagrange പോളിനോമിയലുകൾ FEM ന്റെ കേന്ദ്രമാണ് എല്ലാം ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകളിൽ നിന്ന് നിർമ്മിച്ചതാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഫാൻസിയായി പോകാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലീനിയറിൽ നിർത്താൻ കഴിയുക വിദ്യാർത്ഥി ക്വാഡ്രാറ്റിക്കിലേക്ക് പോകുക ക്വാഡ്രാറ്റിക്കിലേക്ക് പോകുക എന്നാൽ അവിടെ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് വേണ്ടത് നിങ്ങളുടെ അജ്ഞാതങ്ങൾ വർദ്ധിക്കുമോ ഡെറിവേറ്റീവിന്റെ കാര്യമോ അതിനാൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫംഗ്ഷൻ വ്യത്യാസമല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല വിദ്യാർത്ഥി വ്യത്യസ്തമാണ് നോഡ് പോയിന്റിൽ വ്യത്യാസമുണ്ട് അത് മികച്ചതാണ് പക്ഷേ അതിനിടയിലാണ് വിദ്യാർത്ഥി ഒരു പോയിന്റ് കൂടി കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഇതിന് ഒരു ക്വാഡ്രാറ്റിക് ഏകദേശം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ ഒരു നോഡ് കൂടി ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ അജ്ഞാതരുടെ എണ്ണം വിദ്യാർത്ഥി വർദ്ധനവ് ശരിയാണ് വർദ്ധിക്കുന്നത് പക്ഷേ ഘടകം അതേപടി തുടരുന്നു മൂലകം ഇതാണ് ഈ മൂലകത്തിൽ എനിക്ക് എത്ര ഷേപ്പ് ഫംഗ്ഷനുകൾ വേണമെന്നും എത്ര അജ്ഞാതമായവ വേണമെന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ശരിയാണ് അവയെ ഉയർന്ന ഓർഡർ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചില ആളുകൾ ഇതിനെ ഫസ്റ്റ് ഓർഡർ എലമെന്റ് എന്ന് വിളിക്കുന്നത് ചില ആളുകൾ വ്യത്യസ്ത കൺവെൻഷനുകൾ ഉള്ളതിനെ ആശ്രയിച്ച് സീറോത്ത് ഓർഡർ എലമെന്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇതിനെ ഒരു ഫസ്റ്റ് ഓർഡർ ഘടകം എന്ന് വിളിക്കും വിദ്യാർത്ഥി ഞങ്ങൾ എണ്ണം വർദ്ധിപ്പിക്കുന്നു അതെ ഞാൻ പരിചയപ്പെടുത്തിയാൽ ശരി അതിനാൽ ഞാൻ ഇവിടെ ഒരു നോഡ് കൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ മൂലകം ചെറുതാക്കാനും അവയ്ക്കിടയിൽ ലീനിയർ പീസ്വൈസ് ലീനിയർ ആക്കാനും കഴിയും അല്ലെങ്കിൽ മൂലകത്തിന്റെ വലുപ്പം അതേപടി നിലനിർത്താനും ഇപ്പോൾ ഇടയിൽ ഒരു ക്വാഡ്രാറ്റിക് ഉപയോഗിക്കാനും കഴിയും എന്നതാണ് ചോദ്യം രണ്ട് സാധ്യതകളും നിലവിലുണ്ട് രണ്ടും നിങ്ങൾക്ക് വ്യത്യസ്ത നിലവാരത്തിലുള്ള പരിഹാരങ്ങൾ നൽകും നിങ്ങൾ ക്വാഡ്രാറ്റിക് എന്ന് വിളിക്കുന്ന ഫംഗ്ഷൻ നിർബന്ധിതമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തുടർച്ചയ്ക്ക് പുറമെ പരിഹാരത്തിൽ മികച്ച പ്രോപ്പർട്ടികൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും അതിനാൽ അവയാണ് ഇടപാടുകൾ നിങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ബഹുപദങ്ങളുടെ ഉയർന്ന ക്രമം കണക്ക് കുറച്ചുകൂടി സങ്കീർണ്ണമാകുന്നു അതിനാൽ ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള ഒന്നായിരുന്നു വളരെ ആശ്ചര്യപ്പെടേണ്ടതില്ല അതിനാൽ ഞങ്ങൾ രണ്ട് അളവുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് രണ്ട് നോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നോഡുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും പറയാം വിദ്യാർത്ഥി പോളിനോമിയൽ ഇപ്പോഴും ആകാം നിങ്ങൾക്ക് 2 നോഡുകൾ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കഴിയുമോ അതിലൂടെ ഒരു ലൈൻ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ നൽകിയിരിക്കുന്ന ഇടവേളയിൽ ഒരു ഫംഗ്ഷന്റെ അവിഭാജ്യഘടകമായ ഗാസ് ക്വാഡ്രേച്ചറിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു ഏകീകരണം പരിഗണിക്കുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് ഈ 2 നോഡുകൾക്ക് എത്ര ഡിഗ്രി സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് എനിക്ക് രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഒരു വരി മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എനിക്ക് ഇതിലും മികച്ചതൊന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇത് ഒരു മാനത്തിലാണ്